നമുക്ക് തുടരാം അവസാന വീഡിയോയിൽ ഞാൻ ഘടക വളയങ്ങളുടെ പ്രധാന പ്രവർത്തനം ചർച്ചചെയ്തു അതൊന്നു ഓടിച്ചു നോക്കാം R എന്നത് ഏതെങ്കിലും ഒരു വളയം ആണ് I എന്നത് R ലെ ഒരു ഐഡിയലാണ് നമ്മൾ കോഷ്യന്റ് വളയം എന്ന പുതിയ ഒരു വളയത്തെ കുറിച്ച് പ്രതിപാദിക്കുകയുണ്ടായി അതിനെ R മോഡ് I കൊണ്ട് സൂചിപ്പിച്ചു അതിനാൽ യഥാർത്ഥത്തിൽ ഇതിനെ R മോഡ് I എന്നാണ് വായിക്കുക അതിനാൽ ഞാൻ പറഞ്ഞത് ഓർക്കുക ഇത് R ൽ നിർവചിച്ചിരിക്കുന്ന സങ്കലനത്തിനുള്ള I ന്റെ ഇടത് കോസറ്റുകളാണ് അതിനാൽ യഥാർത്ഥത്തിൽ R സങ്കലനത്തിൻറെ ഒരു അബെലിയൻ ഗ്രൂപ്പായി നിങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട് കൂടാതെ I R ന്റെ ഉപഗ്രൂപ്പാണ് അതിനാൽ ഇത് ഒരു അബെലിയൻ ഗ്രൂപ്പാണ് ഇത് ഉപഗ്രൂപ്പുകളുടെ ഒരു അബെലിയൻ ഗ്രൂപ്പ് ഘടകമാണ് ഈ അബെലിയൻ ഗ്രൂപ്പിൻറെ ഓപ്പറേഷൻ വച്ച് ഗുണനത്തെ നിർവചിക്കാം aI bI abI അപ്പോൾ ഇതാണ് നിർവചനം ഇത് ഗുണനത്തിൻറെ വളരെ നല്ല നിർവചനം ആണെന്ന് അവസാന വീഡിയോയിൽ നമ്മൾ കണ്ടു കാരണം സത്യത്തിൽ I ഐഡിയലാണ് ഇത് കേവലം ഒരു ഉപഗ്രൂപ്പ് മാത്രമല്ല നിങ്ങൾ I ലെ ഒരു ഘടകത്തെ വളയത്തിന്റെ മറ്റൊരു ഘടകവുമായി ഗുണനം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം ഐഡിയലായ ഒന്നായിരിക്കും അതിനാൽ ഇത് ഉപയോഗിച്ച് ഇത് വളരെ നല്ല ഓപ്പറേഷൻ ആണെന്ന് നമ്മൾക്ക് കാണിക്കാൻ കഴിയും ഞാനിത് തെളിയിച്ചില്ല ഞാൻ നിങ്ങളോട് ഇതിൻറെ വിശദാംശങ്ങൾ പരിശോധിക്കാൻ പറഞ്ഞിരുന്നു ഈ ഓപ്പറേഷൻ ഉപയോഗിച്ച് R എന്നത് R മോഡ് I എന്നാണ് അതായത് ഒരു വളയം അതിനാൽ ഇത് നമുക്ക് പ്രധാനപ്പെട്ട ഒരു നിർമ്മിതിയാണ് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഉദാഹരണങ്ങൾ തന്നിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം ഇതാണ് ഞാൻ ഇത് ചെയ്യുന്നത് വേഗത്തിൽ പോയിരിക്കാം പക്ഷേ നിങ്ങൾ യഥാർത്ഥ സംഖ്യകൾക്ക് മുകളിലൂടെ പോളിനോമിയൽ റിംഗ് എടുത്ത് അനുയോജ്യമായ മൊഡ്യൂളിലേക്ക് പോയാൽ എക്സ് സ്ക്വയേർഡ് പ്ലസ് 1 നിങ്ങൾക്ക് ലഭിക്കും അത് വളയങ്ങളെ സംബന്ധിച്ച് സങ്കീർണ്ണ സംഖ്യകളാണ് അതിനാൽ ഇത് വളയങ്ങളുടെ ഐസോമോർഫിസമാണ് അതിനാൽ ഞാൻ ഇതിലേക്ക് മടങ്ങിവരാം ഇത് റിംഗ് സിദ്ധാന്തം മനസ്സിലാക്കുന്നതിനുള്ള ഒരു പ്രധാന ഐസോമോർഫിസമാണ് ഇത് പല സാഹചര്യങ്ങളിലും നമ്മൾ കാണും അതിനാൽ നമുക്ക് പിന്നീട് ഇതിലേക്ക് മടങ്ങാം ഇന്ന് ഞാൻ ചെയ്യേണ്ടത് കോഷ്യന്റ് വളയങ്ങളെക്കുറിച്ചുള്ള എന്റെ പഠനം തുടരുകയും ഈ വളരെ പ്രധാനപ്പെട്ട തിയറം നടത്തുകയും ചെയ്യുക എന്നതാണ് അതിനാൽ ഞാൻ ഇവിടെ കോഷ്യന്റ് വളയങ്ങളുടെയും റിംഗ് ഹോമോമോർഫിസത്തിന്റെയും വിവിധ സവിശേഷതകൾ ക്ലബ് ചെയ്യാൻ പോകുന്നു അതിനാൽ ഞാൻ മൂന്ന് പ്രസ്താവനകൾ നടത്താൻ പോകുന്നു ഫൈ ൽ നിന്ന് R വരേക്കും പിന്നീട് R പ്രൈം വരേക്കും ഒരു റിംഗ് ഹോമോമോർഫിസമാണെന്ന് നമുക്ക് പറയാം അതിനാൽ ഫൈ ഒരു റിംഗ് ഹോമോമോർഫിസമായിരിക്കട്ടെ R ഉം R പ്രൈമും രണ്ട് വളയങ്ങളും ഫൈ ഒരു റിംഗ് ഹോമോമോർഫിസവുമാണ് S നെ R ന്റെ ഇമേജായി നിർവചിക്കുക അതിനാൽ S യഥാർത്ഥത്തിൽ R പ്രൈമിന്റെ ഉപസെറ്റാണ് ഇപ്പോൾ നമുക്ക് മൂന്ന് പ്രസ്താവനകൾ ഉണ്ട് അതിനാൽ 1 S എന്നത് R പ്രൈമിന്ടെ ഒരു ഉപറിംഗ് ആണ് ഇതാണ് റിംഗ് ഹോമോമോർഫിസത്തെക്കുറിച്ചുള്ള ഒരു പ്രസ്താവന ആദ്യം തന്നെ S എന്നത് R പ്രൈമിന്ടെ ഒരു ഉപറിംഗ് ആണ് രണ്ടാമതായി R മോഡ് കേർണൽ ഓഫ് ഫൈ S ന് ഹോമോമോർഫിക്ക് ആണ് ഇതാണ് റിങ്ങിന്ടെ ഐസോമോർഫിസം ഇതിനെ "ആദ്യത്തെ ഐസോമോർഫിസ സിദ്ധാന്തം" എന്ന് വിളിക്കുന്നു നിങ്ങൾ ഒരുപക്ഷേ പഠിച്ചിരിക്കാം ഗ്രൂപ്പ് തിയറിയിൽ ആദ്യത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ഐസോമോർഫിസ സിദ്ധാന്തങ്ങൾ ഉണ്ടെന്ന് ഇതിനു സമാനമായി റിംഗ് തിയറിയിലും അവയുണ്ട് അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഐസോമോർഫിസ സിദ്ധാന്തം നിങ്ങൾക്ക് ഒരു വളയ ഹോമോമോർഫിസമുണ്ട് എങ്കിൽ ആ ഹോമോമോർഫിസത്തിന്റെ റിംഗ് മുതൽ R മോഡ് കേർണൽ വരെയുള്ള ഇമേജ് ഐസോമോർഫിക്ക് ആണ് S ഒരു റിംഗ് ആണെന്ന് നമുക്കറിയാം അതിനാൽ ഈ ഐസോ മോർഫിഫിസത്തിൽനിന്ന് നമുക്കൊരു പ്രസ്താവന ഉണ്ടാക്കാം മൂന്നാമത്തേത് ഒരു ബൈജക്ടീവ് കറസ്പോണ്ടൻസ് ആണ് ഇനിപ്പറയുന്ന രണ്ട് സെറ്റുകൾക്കിടയിൽ ഒരു ബൈജക്ടീവ് കറസ്പോണ്ടൻസ് ഉണ്ട് ആദ്യ സെറ്റ് കേർണൽ ഫൈ അടങ്ങിയിരിക്കുന്ന R ലെ ഐഡിയലുകൾ ആണ് അതിനാൽ ഇതാണ് ബൈജക്ഷൻ അതിനാൽ ഒരു വശത്ത് നിങ്ങൾക്ക് R ൽ കേർണൽ അടങ്ങിയിരിക്കുന്ന ഐഡിയലുകൾ ഉണ്ട് മറുവശത്ത് നിങ്ങൾക്ക് S ന്റെ ഐഡിയലുകൾ ഉണ്ട് അതിനാൽ നിങ്ങൾക്ക് ബൈജക്ടീവ് കറസ്പോണ്ടൻസ് ഉണ്ട് ഇതിനെ "കറസ്പോണ്ടൻസ് സിദ്ധാന്തം" എന്ന് വിളിക്കുന്നു അതിനാൽ ഞാൻ ഇവയെ ഒരുമിച്ച് ചേർക്കുന്നു കാരണം കോഷ്യന്റ് വളയങ്ങളെക്കുറിച്ചുള്ള പ്രധാന വസ്തുതകൾ പരാമർശിക്കുന്ന ഒരു സിദ്ധാന്തം ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് ഇതിനെ കറസ്പോണ്ടൻസ് സിദ്ധാന്തം എന്ന് വിളിക്കുന്നു ബൈജക്ഷൻ വാസ്തവത്തിൽ നൽകുന്നത് നിങ്ങൾ ഒരു ഐഡിയൽ J എടുക്കുന്നു അതായത് നിങ്ങൾ ഈ സെറ്റിലെ ഒരു ഘടകം എടുക്കുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കേർണൽ ഫൈ അടങ്ങിയിരിക്കുന്ന ഒരു ഐഡിയൽ J എടുക്കുന്നു കാരണം അത് ഈ സെറ്റിൽ നിങ്ങൾ ഇതിനെ J യിലെ ഫൈ യിലേക്ക് പകർത്തുന്നു അതിനാൽ ഒരു റിംഗ് ഹോമോമോർഫിസത്തിന് കീഴിലുള്ള ഒരു ഐഡിയലിന്റെ ഇമേജ് ഐഡിയലാണെന്ന് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ കണ്ടു മറുവശത്ത് നമ്മൾ S ന്റെ ഐഡിയലായ J പ്രൈം എടുക്കുന്നു J പ്രൈം എസ് ന്റെ ഒരു ഐഡിയലാണ് നിങ്ങൾ ഫൈ ഇൻവെർസ് ഓഫ് J പ്രൈം എടുക്കുക കൂടാതെ നമ്മൾ മറ്റൊന്നുകൂടി കാണുകയുണ്ടായി അതായത് നിങ്ങൾക്ക് ഒരു റിംഗ് ഹോമോമോർഫിസം ഉണ്ടെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അത് ഒരു സർജെക്ടിവ് ആണ് ഐഡിയലിന്റെ വിപരീത ഇമേജ് ഒരു ഐഡിയലാണ് ഇവിടെ R മുതൽ S വരെയുള്ള മാപ് നിർവചനം അനുസരിച്ച് സർജക്റ്റീവ് ആണ് കാരണം S ഇമേജായി നിർവചിച്ചിരിക്കുന്നു അതിനാൽ R മുതൽ S വരെ ഒരു സർജക്റ്റീവ് റിംഗ് ഹോമോമോർഫിസമാണ് വിപരീത ഇമേജ് ഒരു ഐഡിയലാണ് എന്നിരുന്നാലും സെറ്റിൽ എത്തുന്നതിന് അതിൽ കേർണൽ ഫൈ അടങ്ങിയിരിക്കുന്നു എന്ന് നമ്മൾ കാണിക്കേണ്ടതുണ്ട് അതിനാൽ ഇത് നമ്മൾ തെളിവായി എടുക്കുന്നു അതിനാൽ തിയറിക്ക് മൂന്ന് ഭാഗങ്ങളുണ്ട് നമുക്ക് അവ ഓരോന്നായി തെളിയിക്കാം പ്രൂഫ് തിയറം ആദ്യ ഭാഗം വളരെ എളുപ്പമാണ് അതിനാൽ ഇത് വേഗത്തിൽ തെളിയിക്കാം ഒരു ഉപറിങ് എന്നാൽ എന്താണ് S ഒരു ഉപറിംഗാണെന്ന് കാണിക്കാൻ S R പ്രൈമിന്റെ ഒരു ഉപറിംഗാണെന്ന് കാണിക്കാൻ നമ്മൾ പലതും ശരിയായി പരിശോധിക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് ഈ പ്രോപ്പർട്ടികളിൽ ചിലത് ഞാൻ ഇപ്പോൾ പട്ടികപ്പെടുത്താം 1 എസ് പ്രൈമിൽ ആണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് കാരണം 1 എന്നത് ഫൈ യുടെ 1 ആണെന്ന് ഓർക്കുക അതിനാൽ ഇവിടെ തീർച്ചയായും ഞാൻ അർത്ഥമാക്കുന്നത് R പ്രൈമിൻറെ ഒന്നാണ് ഇവിടെ R ൻറെ ഒന്നും ഞാൻ ഇത് എഴുതുന്നത് വ്യക്തതക്ക് വേണ്ടിയാണ് നിങ്ങൾ R ന്റെ ഗുണിത ഐഡന്റിറ്റി ഘടകം എടുക്കുകയാണെങ്കിൽ നിർവചനം അനുസരിച്ച് ഒരു റിംഗ് ഹോമോമോർഫിസത്തിന് കീഴിലുള്ള അതിന്റെ ഇമേജ് R പ്രൈമിന്റെ ഗുണിത ഐഡന്റിറ്റിയാണ് അതിനാൽ 1 എസ് പ്രൈമിലാണ് S സങ്കലനത്തിൽ അടച്ചിരിക്കുകയാണ് അതും ശരിയാണ് നിങ്ങൾ ф ф എടുക്കുകയാണെങ്കിൽ S ന്റെ രണ്ടു ഘടകങ്ങളും ф യുടെയും ф യുടെയും ഫോമിൽ ആയിരിക്കും അവയുടെ ആകെത്തുക ф ab ആണ് അതും S ൽ ആണ് അതിനാൽ ഇത് S ൽ ആണ് ഇതും S ലാണ് അതായത് ഇത് S ൽ ആണ് മൂന്നാമത്തെ പ്രോപ്പർട്ടി S ഗുണനത്തിൽ ആണെന്നാണ് ഇത് പ്രാധാന്യമുള്ളതല്ല അതിനാൽ ഇത് കൃത്യമായി സമാന കണക്കുകൂട്ടലാണ് കാരണം നിങ്ങൾ S ൻറെ രണ്ട് ഘടകങ്ങൾ എടുക്കുകയാണെങ്കിൽ നിർവചനത്തിൽ അവ ф ф എന്നീ ഫോമിലാണ് ഗുണനത്തിലുള്ളത് കാരണം ഫൈ ഒരു ഗ്രൂപ്പ് ഹോമോമോർഫിസമാണ് അതായത് ф ഇത് ab യുടെ ഇമേജ് ആണ് അതിനാൽ എസ് ഒരു ഉപറിംഗ് ആണ് ഇത് പരിശോധിക്കാൻ വളരെ എളുപ്പമാണ് ഞാൻ ഇത് കൂടുതൽ വിശദീകരിക്കുന്നില്ല പക്ഷേ ഇത് S ഒരു ഉപറിംഗ് ആണെന്ന് തെളിയിക്കുന്നു അതിനാൽ രണ്ടാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് ഓർക്കുക എസ് മോഡ് ആർ മോഡ് കേർണൽ ഫൈ നമുക്കിവിടെ S നെ തെളിയിക്കേണ്ടതുണ്ട് ഇതാണ് നമ്മൾ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് അതിനാൽ നമ്മൾ ഇപ്പോൾ കോഷ്യന്റ് വളയങ്ങൾ എന്ന ആശയം ഉപയോഗിക്കുന്നു അവസാന വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഓർക്കുക നമുക്ക് ഒരു സ്വാഭാവിക ഹോമോമോർഫിസം ഉണ്ട് R മുതൽ R മോഡ് കേർണൽ ഫൈ വരെ ഉള്ള സ്വാഭാവിക റിംഗ് ഹോമോമോർഫിസം ഇത് എന്താണ് ഇത് ഒരു ഘടകം a നെ a കേർണൽ ഫൈയിലേക്ക് അയയ്ക്കുന്നു ഇത് ഗ്രൂപ്പ് തിയറിയിൽ ഉള്ള ഒരേ മാപ് തന്നെയാണെന്ന് ഓർക്കുക നമുക്കൊരു ഗ്രൂപ്പ് ഹോമോമോർഫിസം ഉണ്ടെങ്കിൽ നമുക്ക് ഈ മാപ് ഉണ്ട് ഇപ്പോൾ ഇതുപയോഗിച്ച് എനിക്ക് ഫംഗ്ഷൻ നിർവചിക്കാൻ കഴിയും ആദ്യം തന്നെ R മോഡ് കേർണൽ ഫൈ മുതൽ എസ് വരെ അതിനാൽ ഒരു ഫംഗ്ഷൻ നിർവചിക്കുക നമുക്ക് ψ മുതൽ R മോഡ് കേർണൽ ഫൈ വരെയും പിന്നെ S വരെയും നോക്കാം ഓർക്കുക ഞാൻ ശ്രമിക്കുന്നത് ആർ മോഡ് കേർണൽ ഫൈ S ന് ഐസോമോർഫിക് ആണെന്ന് കാണിക്കാൻ ആണ് അത് ചെയ്യുന്നതിന് ഞാൻ ആദ്യം ഒരു ഫംഗ്ഷൻ നിർവചിക്കും അത് ഒരു ഹോമോമോർഫിസമാണെന്ന് കാണിക്കും തുടർന്ന് അത് ബൈജക്ടീവ് ആണെന്ന് കാണിക്കും അതിനാൽ ആദ്യ ഘട്ടം ഫംഗ്ഷൻ നിർവചിക്കുക എന്നതാണ് എന്താണ് ആർ മോഡ് കേർണൽ ഫൈയുടെ ആർബിട്രറി ഘടകം ഇത് a കേർണൽ ഫൈയുടെ ഫോമാണ് ഇത് ф ആണെന്ന് ഞാൻ എളുപ്പത്തിൽ നിർവചിക്കുന്നു അതായത് ф S ലാണ് അതിനാൽ ഇവിടെ ഓർക്കുക a പ്ലസ് കേർണൽ ഫൈ എന്നാൽ a R ൽ ആണെന്നാണ് നമുക്ക് R മുതൽ S വരെയുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട് അതായത് фa എന്നത് ф ലേക്ക് പോകുന്നു അതിനാൽ ഇപ്പോൾ ഇത് പരിശോധിക്കേണ്ടതുണ്ട് ഇത് നന്നായി നിർവചിക്കപ്പെട്ടിട്ടുണ്ട് ഇത് ഇതുപോലെ നിർവചിക്കുന്നത് നല്ലതാണ് ф ψ നന്നായി നിർവചിക്കപ്പെട്ടിട്ടുണ്ട് ഇത് നന്നായി നിർവചിക്കപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് a പ്ലസ് കേർണൽ ഫൈ ഒരുപക്ഷേ b പ്ലസ് കേർണൽ ഫൈക്ക് തുല്യമായതിനാൽ ഇത് കോഷ്യന്റ് വലയത്തിലെ ഒരു കോസെറ്റിനെ പ്രതിനിധീകരിക്കുന്നതായി തോന്നുന്നു ഓർക്കുക പത്തിൻറെ a പ്ലസ് കേർണൽ ഫൈ എന്ന കോസെറ്റ് രൂപം പലപ്പോഴും മറ്റ് ചില ഘടകം കേർണൽ ഫൈയ്ക് തുല്യമാണ് b a എന്നിവ വ്യത്യസ്തമായിരിക്കാം അതിനാൽ a പ്ലസ് കേർണൽ ഫൈ ആർ മോഡ് കേർണൽ ഫൈയുടെ ഘടകങ്ങളായ ബി പ്ലസ് കേർണൽ ഫൈയ്ക്ക് തുല്യമായിരിക്കും ψ നന്നായി നിർവ്വചിക്കുന്നതിന് ഈ രണ്ട് ഘടകങ്ങളുടെ ψ ഇമേജ് സമാനമായിരിക്കണം പക്ഷേ ഞാൻ ഈ ψ യുടെ കീഴിലുള്ള ф ψ ലേക്ക് അയയ്ക്കുന്നു ഇതിനെ ψ യുടെ കീഴിലുള്ള ф ലേക്ക് അയയ്ക്കുന്നു ഇത് രണ്ടും തുല്യമാണോ എന്ന് എനിക്ക് പരിശോധിക്കേണ്ടതുണ്ട് എന്നാൽ ചെയ്യേണ്ടണ്തെന്തെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ ഇത് ചെയ്യുന്നത് എളുപ്പമാണ് a കേർണൽ ഫൈ b കേർണൽ ഫൈക്ക് തുല്യമാണെന്ന് കരുതുക നിർവചനം അനുസരിച്ച് ഇതിനർത്ഥം കേർണലിൽ a b ഉണ്ടെന്നാണ് ഉപഗ്രൂപ്പിലുള്ള ഈ രണ്ട് ഘടകങ്ങളുടെ രണ്ട് അഡിറ്റീവ് കോസെറ്റുകൾ തുല്യമാണെങ്കിൽ പക്ഷേ a b കേർണലിലാണെങ്കിൽ ф നിർവചനമനുസരിച്ച് 0 ആയിരിക്കും 0 ലേക്ക് മാപ് ചെയ്യുന്ന ആ ഘടകങ്ങൾ കേർണലിൽ അടങ്ങിയിരിക്കുന്നു അതിനർത്ഥം ф എന്നത് വളയങ്ങളുടെ ഒരു ഹോമോമോർഫിസമാണ് അതായത്ф യും ф യും തുല്യമാണ് ഇപ്പോൾ നമുക്ക് a കേർണൽ ഫൈ b കേർണൽ ഫൈ ഉണ്ട് фф എന്ന് നമ്മൾ തെളിയിച്ചു Ψ നന്നായി നിർവചിച്ചു അത് നല്ലതാണ് അടുത്തതായി നമ്മൾ ψ ഒരു വളയ ഹോമോമോർഫിസമാണെന്ന് നമ്മൾ കാണിക്കും അതിനാൽ നമ്മളുടെ രീതി ഓർക്കുക രണ്ട് വളയങ്ങൾ ഐസോമോർഫിക് ആണെന്ന് കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതായത് R മോഡ് കേർണൽ ഫൈ S ന് ഐസോമോർഫിക് ആണ് എന്താണ് നമ്മളുടെ രീതി ഒരു റിംഗിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒരു ഫംഗ്ഷൻ നിർവചിക്കുന്നതിലൂടെ നമ്മൾ ആരംഭിക്കും അതിനുശേഷം ഇത് ഒരു വളയ ഹോമോമോർഫിസമാണോയെന്ന് നമ്മൾ പരിശോധിക്കും തുടർന്ന് ഇത് 1 1 ആണോയെന്ന് നമ്മൾ പരിശോധിക്കും നമുക്ക് നന്നായി നിർവചിക്കപ്പെട്ട ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് നമ്മൾ ഇതിനകം തന്നെ പരിശോധിച്ചു കഴിഞ്ഞു ഇപ്പോൾ നമുക്ക് ഇത് എടുക്കാം ഇത് ഒരു വളയ ഹോമോമോർഫിസമാണ് അതിനാൽ ഞാൻ പരിശോധിക്കേണ്ടത് എന്തെന്നാൽ ഓർമ്മിക്കുക Ψ എന്നത് R മോഡ് കേർണൽ Φ മുതൽ S വരെയുള്ള ഒരു ഫംഗ്ഷനാണെന്ന് Ψ a കേർണൽ Φ b കേർണൽ Φ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അതിനാൽ കോഷ്യന്റ് വലയത്തിന്റെ രണ്ട് ആർബിട്രറി ഘടകങ്ങൾ എടുക്കുക അതിൻറെ തുക എടുത്ത് Ψ പ്രയോഗിക്കുക എന്നാൽ ഇത് Ψ ന് തുല്യമാണ് കാരണം കോഷ്യന്റ് വലയം ab കേർണൽ ΦΨ ആണ് നിർവചനം അനുസരിച്ച് Ψab കേർണൽ Φ എന്നത് ab Φab ആണ് അത് വളയ ഹോമോമോർഫിസത്തിന്റെ നിർവചനം അനുസരിച്ച് ΦΦ ക്ക് തുല്യമാണ് അതിനാൽ ഇത് നമ്മൾ എഴുതുന്നു Ψa കേർണൽ Φ Ψ b കേർണൽ Φ ഇത് ശരിയാണ് അതിനാൽ ഓരോ ഘട്ടവും വ്യക്തമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനാൽ രണ്ട് ഘടകങ്ങളുടെ ആകെത്തുകയുടെ Ψ എന്നാൽ ആ ഘടകങ്ങളുടെ Ψ ൻറെ ആകെത്തുകയാണെന്ന് നമ്മൾ പരിശോധിച്ചു ഇത് സമാന കണക്കുകൂട്ടൽ ആണ് Ψ a കേർണൽ Φ b കേർണൽ Φ ഉം നമുക്ക് കാണിക്കാൻ കഴിയും അതിനാൽ ഇവിടെ ശരിക്കും ഒന്നും ചെയ്യാനില്ല ഇത് Ψ a കേർണൽ Φ ഉം Ψ b കേർണൽ Φ ഉം ആണ് ഒരു വളയ ഹോമോമോർഫിസത്തിന്റെ മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്താണ് ഐഡന്റിറ്റി ഘടകത്തിന്റെ Ψ ഐഡന്റിറ്റി ഘടകമാണെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് R മോഡ് കേർണൽ ഫൈയുടെ ഗുണിത ഐഡന്റിറ്റി ഘടകം എന്താണ് ഇത് നിർവചനം അനുസരിച്ച് 1 കേർണൽ ഫൈ ആണ് എന്നാൽ ഇത് 1 ന്റെ Φ ആണ് എന്നാൽ 1 ന്റെ Φ 1 ആണ് അതിനാൽ ഇതും ശരിയാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ Φ ഒരു വളയ ഹോമോമോർഫിസമാണ് അങ്ങനെ Φ ഒരു വളയ ഹോമോമോർഫിസമാണെന്ന് നമ്മൾ തെളിയിച്ചു ഇതുവരെ നമുക്ക് ഒരു വളയ ഹോമോമോർഫിസം ഉണ്ട് അടുത്ത ഘട്ടം Ψ 1 1 ആണെന്നും അല്ലെങ്കിൽ Ψ ഇൻജെക്ടിവ് ആണെന്നും കാണിക്കുക എന്നതാണ് നമ്മൾ ഇത് എങ്ങനെ കാണിക്കും ഇൻജെക്ടിവ് എന്നാൽ എന്താണ് രണ്ട് ഘടകങ്ങളുടെ ഇമേജ് തുല്യമാണെങ്കിൽ ആ രണ്ട് ഘടകങ്ങളും തുല്യമാണ് അതിനാൽ Ψ a കേർണൽ ΦΨ b കേർണൽ Φ ക്ക് തുല്യമാണെന്ന് കരുതുക എനിക്ക് എന്താണ് കാണിക്കാൻ താൽപ്പര്യമുള്ളത് a കേർണൽ Φ എന്നാൽ b കേർണൽ Φ ക്ക് തുല്യമാണെന്ന് കാണിക്കാനാണ് എനിക്ക് താല്പര്യം അതിനാൽ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം ഇതും എളുപ്പമുള്ളതാണ് അതിനാൽ ഇത് നിർവചനം അനുസരിച്ച് സംഭവിക്കുകയാണെങ്കിൽ a യുടെ Φ b യുടെ Φ ന് തുല്യമാണ് കാരണം Ψ യുടെ നിർവചനപ്രകാരം ഇത് a യുടെ Φ ഉം ഇത് b യുടെ Φ ഉം ആണ് അതിനാൽ ഇപ്പോൾ a യുടെ Φ b യുടെ Φ ന് തുല്യമാണ് അതായത് Φ 0 ആണ് കാരണം Φ എന്നത് ഒരു ഗ്രൂപ്പ് വളയ ഹോമോമോർഫിസമാണ് അതിനർത്ഥം a b കേർണൽ Φ ൽ ആണ് അതായത് a കേർണൽ Φ b കേർണൽ Φ ക്ക് തുല്യമാണ് അവസാനമായി Ψ ഓൺടു ആണ് എന്തുകൊണ്ടാണിത് ഓർക്കുക ഇത് R മോഡ് കേർണൽ Φ ൽ നിന്ന് S ലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ് Ψ ഒരു വളയ ഹോമോമോർഫിസമാണെന്ന് ഇതിനകം നമ്മൾ കാണിച്ചു മാത്രമല്ല Ψ ഒരു 1 1 ഫംഗ്ഷനാണെന്നും നമ്മൾ തെളിയിച്ചിട്ടുണ്ട് അവസാന ഘട്ടം Ψ ഓൺടു ആണെന്ന് കാണിക്കുക എന്നതാണ് അതിനാൽ ഏത് ഘടകവും തിരഞ്ഞെടുക്കുക ചെറിയ s എന്നത് വലിയ S ന്റെ ഒരു ഘടകമാണെന്ന് നമുക്ക് പറയാം എന്നാൽ വലിയ S എന്താണ് വലിയ S എന്നത് നിർവചനം അനുസരിച്ച് Φ ആണെന്ന് ഓർക്കുക അതായത് R ൽ a ഉണ്ട് അതുപോലെ Φ S ന് തുല്യമാണ് അതിനർത്ഥം ചെറിയ s എന്നത് എന്തിന്റെയെങ്കിലും ഒരു ഇമേജാണ് പക്ഷേ അതിനർത്ഥം Ψa കേർണൽ Φ നിർവചനം അനുസരിച്ച് Φ ആണ് അത് s ആണ് അതിനാൽ എല്ലാം S ലാണ് അത് Ψ യുടെ ഇമേജിൽ ആണ് അതിനാൽ Ψ ഓൺ ടു ആണ് അതിനാൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ Ψ ഒരു ബൈജെക്ടിവാണ് ഓർമ്മിക്കുക ബൈജക്ടീവ് എന്നതിനർത്ഥം അതിന്റെ 1 1 ഉO ഓൺ ടു ഉം ആണ് ബൈജക്ടീവ് വളയ ഹോമോമോർഫിസം ആണ് അതിനാൽ ഒരു വളയ ഐസോമോർഫിസം ആണ് അതിനാൽ നിങ്ങൾക്ക് ഒരു ബൈജക്ടീവ് വളയ ഹോമോമോർഫിസം ഉണ്ട് അത് സ്വാഭാവികമായി ഒരു വളയ ഐസോമോർഫിസമാണ് അതിനാൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മൾ അത് കാണിച്ചു Ψ എന്നാൽ R മോഡ് കേർണൽ ഫൈ മുതൽ S വരെയുള്ള ഒരു ഐസോമോർഫിസമാണ് അതിനാൽ ഇത് കൃത്യമായി തിയറത്തിൻറെ രണ്ടാം ഭാഗമാണ് അതിനാൽ തിയറത്തിന്റെ രണ്ടാം ഭാഗം പറയുന്നത് R മോഡ് കേർണൽ Φ എന്നാണ് അതിനാൽ തിയറത്തിന്റെ പ്രസ്താവന നമുക്കൊന്നു ഓർമിച്ചു നോക്കാം നമ്മൾ ഇവിടെ മൂന്ന് പ്രസ്താവനകൾ നടത്തി വളയ ഹോമോമോർഫിസത്തിന്റെ ഇമേജ് വളയ കോഡോമെയ്നിന്റെ ഒരു ഉപവളയമാണെന്നായിരുന്നു ആദ്യത്തെ പ്രസ്താവന അത് നമ്മൾ തെളിയിച്ചിട്ടുണ്ട് രണ്ടാമത്തേത് R മോഡ് കേർണൽ ഫൈ ഇമേജ് ഉപവളയത്തിന് ഐസോമോഫിക് ആണ് അതാണ് നമ്മൾ ഇപ്പോൾ തെളിയിച്ചത് അടുത്ത ഘട്ടം കാണിക്കുന്നത് രണ്ട് സെറ്റുകൾക്കിടയിൽ ഒരു ബൈജക്ടീവ് കറസ്പോണ്ടൻസ് ഉണ്ട് എന്നാണ് അതിനാൽ നമുക്ക് A സെറ്റുകളെ കേർണൽ ഫൈ അടങ്ങിയിരിക്കുന്ന R ലെ ഐഡിയലുകളുടെ ഒരു കൂട്ടമാണ് എന്ന് വിളിക്കാം S ലേ എല്ലാ ഐഡിയ യലുകളെയും B എന്നുവിളിക്കാം അതിനാൽ A യും B യും തമ്മിൽ ഒരു ബൈജെക്ടിവ് ഉണ്ടെന്ന് കാണിക്കേണ്ടതുണ്ട് A എന്നത് കേർണൽ ഫൈ അടങ്ങിയിരിക്കുന്ന R ലെ ഐഡിയലുകൾ ആണ് B എന്നത് R ലെ ഐഡിയലുകൾ ആണ് കൂടാതെ ഫംഗ്ഷനുകൾ എന്താണെന്നു നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു A മുതൽ B വരെയുള്ള ഫംഗ്ഷൻ പറയുന്നത് R ന്റെ ഐഡിയൽ ആണെന്നാണ് അതിനെ അതിന്റെ ഇമേജിലേക്ക് മാപ് ചെയ്യുകയും ചെയ്യുന്നു B മുതൽ A വരെയുള്ള ഫംഗ്ഷൻ പറയുന്നത് S ന്റെ ഐഡിയൽ ആണെന്നാണ് അതിനെ അതിന്റെ ഇൻവെർസ് ഇമേജിലേക്ക് മാപ് ചെയ്യുകയും ചെയ്യുന്നു നമുക്കറിയാവുന്നത് ഒരു ഐഡിയൽ ആണ് പക്ഷേ നമ്മളത് കാണിക്കണം വാസ്തവത്തിൽ B യിൽ ശരിയാണ് അതിനാൽ മൂന്നാം ഭാഗം ഞാൻ ഇപ്പോൾ തെളിയിക്കും അതിനാൽ A യും ബി യും കാണിക്കാൻ ഞാൻ അവ ബൈജെക്ടിവ് ആണെന്ന് പ്രസ്താവിക്കുന്നു A B എന്നിവ വെറും സെറ്റുകളാണെന്ന് ഓർമ്മിക്കുക അതിനാൽ ഇവിടെ അധിക ഘടനയൊന്നുമില്ല അവ വെറും സെറ്റുകൾ മാത്രമാണ് അവ ബൈജക്ടീവ് ആണെന്ന് കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു മാത്രമല്ല A യിൽ നിന്നു B യിലേക്കുള്ള ഫംഗ്ഷനിൽ J Φ യിലേക്ക് പോകുന്നു A യിൽ നിന്നു B യിൽ J പ്രൈം ഫൈ ഇൻവേർസ് J യിലേക്ക് പോകുന്നു J പ്രൈമും ഫൈ ഇൻവേർസ് J പ്രൈമും അതിനാൽ ആദ്യത്തെ പ്രസ്താവന ഇതൊരു ഫംഗ്ഷൻ ആണെന്നാണ് അതിനാൽ നമുക്ക് ഇതിനെ f എന്ന് വിളിക്കാം ഇതിനെ J എന്ന് വിളിക്കാം f നന്നായി നിർവചിക്കപ്പെട്ടിട്ടുണ്ട് കാരണം J എന്നത് R ലെ ഒരു ഐഡിയൽ ആണെങ്കിൽ നമുക്കറിയാം Φ എപ്പോഴും S ന്റെ ഐഡിയൽ ആയിരിക്കും അതിനാൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ Φ B യിലാണ് അതിനാൽ നമുക്ക് വേറൊന്നും കാണിക്കേണ്ടതില്ല നമ്മൾ കാണിക്കേണ്ടത് ഇത്രമാത്രമേ ഉള്ളൂ നമ്മൾ എന്തെങ്കിലും A ഇൽ നിന്ന് ആരംഭിക്കുക അതിന്റെ ഇമേജ് B യിലായിരിക്കണം അതാണ് ഞാൻ കാണിച്ചത് അതിനാൽ നിങ്ങൾ A യിലെ ഒരു ഘടകം എടുക്കുകയാണെങ്കിൽ അതിന്റെ ഇമേജ് J യിലാണ് അത് B യിലുമാണ് g നന്നായി നിർവചിക്കപ്പെട്ടിട്ടുണ്ടെന്ന് കാണിക്കാൻ നമ്മൾ കാണിക്കേണ്ടത് J പ്രൈം ഒരു ഐഡിയൽ ആണെന്നാണ് J പ്രൈം B യിലാണ് എന്താണ് B S യുടെ ഐഡിയലുകളുടെ കൂട്ടമാണ് B എന്ന് ഓർക്കുക അതിനർത്ഥം J പ്രൈം S യുടെ ഒരു ഐഡിയൽ ആണ് അത് നമ്മൾ കാണിക്കേണ്ടതുണ്ട് അതിനാൽ നമ്മൾ ആദ്യം ഇത് എഴുതാം ഫൈ ഇൻവെർസ് J പ്രൈം R ന്റെ ഒരു ഐഡിയൽ ആണെന്ന് നമുക്കെല്ലാവർക്കും ഇതിനകം അറിയാം ഇത് അറിയാനുള്ള കാരണം നിങ്ങൾക്ക് ഒരു ഓൺ ടു വളയ മാപ് ഉണ്ടെങ്കിൽ ഓൺ ടു വളയ ഹോമോമോർഫിസത്തിന്റെ ഐഡിയൽ ഇൻവെർസ് ഇമേജുകൾ ഐഡിയലുകൾ ആണ് കുറച്ച് വീഡിയോകൾക്ക് മുമ്പ് ഇത് ഒരു പ്രശ്ന സെഷനിൽ ഞാൻ തെളിയിച്ചിട്ടുണ്ട് പക്ഷേ ഇത് A യിലാണെന്ന് ഇതുവരെ തെളിയിച്ചിട്ടില്ല എന്താണ് A A R ലുള്ള എല്ലാ ഐഡിയലുകളുടെയും ഒരു കൂട്ടമല്ല A എന്നത് കേർണൽ ഫൈ അടങ്ങിയിരിക്കുന്ന R ലെ ഐഡിയലുകളുടെ ഒരു കൂട്ടമാണ് അതിനാൽ ഫൈ ഇൻവേർസ് J പ്രൈം A യിൽ ഉണ്ടെന്ന് കാണിക്കുന്നതിന് ഇത് ഐഡിയൽ ആണെന്ന് നമ്മൾ കാണിക്കണം അത് ഇതിനകം നമ്മൾ കാണിച്ചു കഴിഞ്ഞു ഇതിനുപുറമെ നമ്മൾ കേർണൽ ഫൈ ഫൈ ഇൻവെർസ് J പ്രൈമിൽ അടങ്ങിയിരിക്കുന്നു എന്ന് കാണിക്കേണ്ടതുണ്ട് ഓർമിക്കുക വലിയ A കേർണൽ അടങ്ങിയിരിക്കുന്ന R ന്റെ എല്ലാ ഐഡിയലുകളും ഉൾക്കൊള്ളുന്നു അതിനാൽ ഫൈ ഇൻവെർസ് J പ്രൈം A യിലാണെന്ന് കാണിക്കുന്നതിന് കേർണൽ ഫൈ ഫൈ ഇൻവെർസ് J പ്രൈമിലാണെന്ന് കാണിക്കേണ്ടതുണ്ട് ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല കാരണം J പ്രൈം ഒരു ഐഡിയൽ ആണെന്ന് ഓർക്കുക അതിനാൽ J പ്രൈമിൽ 0 അടങ്ങിയിരിക്കുന്നു S വളയത്തിലെ 0 എന്ന ഘടകം എന്നാൽ ഇത് ഒരു കൂട്ടം സൈദ്ധാന്തിക പ്രസ്താവനകൾ മാത്രമാണ് ഫൈ ഇൻവേർസ് 0 ഫൈ ഇൻവെർസ് J പ്രൈമിൽ അടങ്ങിയിരിക്കുന്നു നിങ്ങൾക്ക് രണ്ട് ഓരോ സെറ്റ് മറ്റൊന്നിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇൻവെർസ് ഇമേജുകൾക്ക് സമാനമായ ഉൾപ്പെടുത്തൽ ഉണ്ട് 0 ലേക്ക് മാപ്പുചെയ്യുന്ന എന്തും ജെ പ്രൈമിന്റെ ഇൻവെർസ് ഇമേജിലുണ്ട് അതിനാൽ ഇത് കുഴപ്പമില്ല പക്ഷേ എന്താണ് ഫൈ ഇൻവെർസ് 0 ഇത് നിർവചനം അനുസരിച്ച് കേർണൽ ഫൈ ആണ് കേർണൽ ഫൈ എഴുതുന്നതിനുള്ള മറ്റൊരു മാർഗ്ഗമാണിത് കാരണം 0 ലേക്ക് മാപ്പ് ചെയ്യുന്ന ഘടകങ്ങളുടെ കൂട്ടമാണ് കേർണൽ ഫൈ അതിനർത്ഥം കേർണൽ ഫൈ എന്നത് ഫൈ ഇൻവെർസ് 0 ആണ് അതിനാൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഫൈ ഇൻവെർസ് J പ്രൈം A യുടെതാണ് അതിനാൽ ഇപ്പോൾ നമുക്ക് ഫംഗ്ഷനുകൾ ഉണ്ട് അതിനാൽ ഞാനിത് ഇതുപോലെ എഴുതാം അതിനാൽ f A യിൽ നിന്ന് B യിലേക്കും g B യിൽ നിന്ന് A യിലേക്കും പോകുന്നു ഇപ്പോൾ അവ ബൈജെക്ടിവ് ആണെന്ന് നമ്മൾ എങ്ങനെ കാണിക്കും A B എന്നിവ ബൈജക്ടീവ് കറസ്പോണ്ടന്റുകളിലാണെന്ന് കാണിക്കുന്നതിന് തീർച്ചയായും രണ്ട് ഫംഗ്ഷനുകൾ നിർമ്മിക്കാൻ ഇത് പര്യാപ്തമല്ല അവ പരസ്പരം വിപരീതമാണെന്ന് നാം കാണിക്കേണ്ടതുണ്ട് f ഉം g ഉം പരസ്പരം വിപരീതമാണെന്ന് കാണിക്കേണ്ടതുണ്ട് രണ്ട് സെറ്റുകൾ ബൈജക്ടീവ് ആണെന്ന് കാണിക്കുന്നതിനുള്ള പതിവ് രീതിയാണിത് അതിനാൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മൾ കാണിക്കേണ്ടത് ആദ്യം f വഴി പോകണം പിന്നീട് g വഴി പോകുക എന്നതാണ് അതിനാൽ നിങ്ങൾ A യിൽ തുടങ്ങി F വഴി B യിലേക്ക് പോകുക തുടർന്ന് A യിലേക്ക് മടങ്ങുക അത് A യിലെ ഐഡന്റിറ്റി ഫംഗ്ഷനായിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾ ആദ്യം g ചെയ്ത് പിന്നീട് f ചെയ്താൽ അത് B യിലെ ഐഡന്റിറ്റി ഫംഗ്ഷനായിരിക്കണം അതിനാൽ നമുക്ക് മുമ്പ് ഉണ്ടായിരുന്ന f g എന്നിവയുടെ നിർവചനം അനുസരിച്ച് നമ്മൾ ഇവ രണ്ടും പരിശോധിക്കേണ്ടതുണ്ട് മറ്റൊരു വിധത്തിൽ നമ്മൾ കാണിക്കേണ്ടതെന്താണ് അതിനാൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ കാണിക്കേണ്ടതുണ്ട് ഞാൻ അവ ഇവിടെ എഴുതി ചോദിക്കാം അതിനാൽ ഞാൻ ഇവിടെ രണ്ട് കാര്യങ്ങൾ എഴുതാം ആദ്യം J യുടെ Φ ഇൻവെർസ് Φ J ആണ് ഇത് ഇത്തരത്തിലൊന്നാണ് അതിനാൽ ആദ്യം f എടുത്ത് പിന്നീട് g എടുക്കുക അതിനാൽ നിങ്ങൾ ആരംഭിക്കുന്ന ആദ്യത്തേത് കേർണൽ ഫൈ അടങ്ങിയിരിക്കുന്ന R ന്റെ ഐഡിയൽ ആണ് ഇതിൻറെ ഇമേജ് എടുത്ത് പിന്നീട് ഇൻവെർസ് ഇമേജും എടുക്കുക നിങ്ങൾക്ക് J ലഭിക്കുന്നു F സർക്കിൾ g യുടെ കറസ്പോണ്ടൻസ് എന്താണ് അത് ഐഡന്റിറ്റി B ആണ് നിങ്ങൾ ആദ്യം ഫൈ ഇൻവെർസ് J പ്രൈം എടുക്കുക എന്നിട്ട് ഫൈ എടുക്കുക നിങ്ങൾക്ക് J നേടേണ്ടതുണ്ട് അതിനാൽ ഈ J A യിലുമാണ് J പ്രൈം B യിലാണ് അതിനാൽ നമുക്ക് ഇപ്പോൾ ഇവ പരിശോധിക്കാം ഇവ മുമ്പ് തിരിച്ചറിഞ്ഞതിനാൽ അവ ബുദ്ധിമുട്ടുള്ളവയല്ല ഇവയെല്ലാം തന്നെ സൈദ്ധാന്തിക സവിശേഷതകൾ മാത്രമുള്ളതാണ് ഒരിടത്ത് കേർണൽ ഫൈ അടങ്ങിയിരിക്കുന്ന J നിങ്ങൾ ഉപയോഗിക്കേണ്ടതുണ്ട് അതിനാൽ എന്നെ ഇതുപോലെ കാണിക്കാൻ അനുവദിക്കുക ഇത് A യിലെ രണ്ട് സെറ്റുകളുടെ തുല്യതയാണ് അതിനാൽ അവ തുല്യമാണോയെന്ന് പരിശോധിക്കാൻ ഓരോന്നിനും മറ്റൊന്ന് അടങ്ങിയിരിക്കുന്നുവെന്ന് കാണിക്കേണ്ടതുണ്ട് J ഫൈ ഇൻവെർസ് ഫൈ J ഇൽ അടങ്ങിയിട്ടുണ്ടെന്ന് കാണിക്കുന്നത് വ്യക്തമാണ് കാരണം a J ൽ ഉണ്ടെന്ന് കരുതുക അതിനർത്ഥം നിർവചനം അനുസരിച്ച് a യുടെ Φ J യുടെ Φ യിലാണ് a J Φ ൽ ആണെങ്കിൽ a J യുടെ Φ യിലാണ് പക്ഷേ അതിനർത്ഥം a ഫൈ J യുടെ ഫൈ ഇൻവെർസിൽ ആയിരിക്കണം കാരണം a ഫൈ J യിലേക്ക് മാപ് ചെയ്യുന്നു അതിനാൽ ഫൈ J യുടെ ഇൻവെർസ് ഇമേജിൽ a അടങ്ങിയിരിക്കണം എന്താണ് ഫൈ J യുടെ ഇൻവെർസ് ഇമേജ് ഇവയെല്ലാം ഫൈ J യിലേക്ക് മാപ് ചെയ്യുന്ന ഘടകങ്ങളാണ് അതിനാൽ a അത്തരത്തിലുള്ള ഒന്നാണ് ഫൈ ഇൻവെർസ് ഫൈ J ഇൽ a അടങ്ങിയിരിക്കുന്നു അതിനാൽ നമ്മൾ J യിൽ എന്തെങ്കിലും ആരംഭിച്ചു ഇത് ഫൈ ഇൻവേർസ് ഫൈ J യിൽ ആണെന്ന് കാണിച്ചു വിപരീത ഉൾപ്പെടുത്തൽ തെളിയിക്കാൻ നമുക്ക് ഫൈ ഇൻവെർസ് ഫൈ J യുടെ ഒരു ഘടകത്തിൽ നിന്നും ആരംഭിക്കാം അതിനാൽ ഞാനിപ്പോൾ ഫൈ ഇൻവെർസ് ഫൈ J യുടെ ഒരു ഘടകത്തിൽ നിന്നും ആരംഭിക്കുന്നു അതിൻറെ ഇമേജ് J യിൽ ആണെന്ന് കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത് പറയുന്നത് തീർച്ചയായും Φ Φ ഇൽ ആണ് എന്നാണ് ഫൈ J യുടെ ഇൻവെർസ് ഇമേജിലുള്ളതിന്റെ നിർവചനമാണിത് ഫൈ J യുടെ ഇൻവെർസ് ഇമേജിൽ എന്തോ ഒന്ന് ഉണ്ട് അതിനർത്ഥം അതിൻറെ ഇമേജ് ഫൈ J ഇൽ ആണെന്നാണ് എന്നാൽ നമുക്ക് ഉടനെ തന്നെ a B യിൽ ആണെന്നോ a J യിൽ ആണെന്നോ ഒരു നിഗമനത്തിലെത്താൻ കഴിയില്ല കാരണം Φ Φ യിൽ ആണെന്ന് പറഞ്ഞാൽ പൊതുവായി a J ഇൽ ആണ് എന്ന് അർത്ഥമില്ല എന്നിരുന്നാലും ഇത് അർത്ഥമാക്കുന്നത് a യുo b യുo J ൽ നിലനിൽക്കുന്നു എന്നാണ് അതായത് Φ Φ യ്ക് തുല്യമാണ് എന്താണ് Φ J യുടെ ഫൈ എന്നത് നിർവചനം അനുസരിച്ച് J യുടെ എല്ലാ ഘടകങ്ങളുടെയും ഫൈ ആണ് അതിനാൽ a യുടെ ഫൈ എന്നതിനർത്ഥം Φ 0 ആണെന്നാണ് കാരണം Φ Φ യ്ക് തുല്യമാണ് ഇതിനർത്ഥം a b കേർണലിൽ ആണെന്നാണ് പക്ഷേ ഇപ്പോൾ J A യിലാണെന്ന് ഓർമ്മിക്കുക അതിനർത്ഥം J കേർണൽ ഫൈ യിൽ അടങ്ങിയിരിക്കുന്നു കേർണൽ ഫൈ അടങ്ങിയിരിക്കുന്ന എല്ലാ ഐഡിയലുകളും A യിൽ അടങ്ങിയിരിക്കുന്നു അതിനാൽ a b കേർണലിലാണ് എന്നതിനർത്ഥം a b J യിലാണ് എന്നാണ് പക്ഷേ B ഇതിനകം J യിലാണ് b J യിലാണ് എന്നാൽ a b J യിലാണ് എന്നാണ് അതായത് ആകെതുക J യിലാണ് അതിനർത്ഥം a J യിലാണ് എന്നാണ് നമ്മൾ കാണിക്കേണ്ടതെന്താണോ നമ്മൾ ഫൈ ഇൻവേർസ് ഫൈ J യിൽ എന്തെങ്കിലും ആരംഭിച്ച് അത് J യിലാണെന്ന് നമ്മൾ കാണിച്ചു ഇനി ഇതിലേക്ക് വരാൻ വളരെ എളുപ്പമാണ് ഇത് ഫൈ ഇൻവെർസ് J പ്രൈമിൻറെ ഫൈ J പ്രൈം ആണ് അതിനാൽ ഈ രണ്ട് അസമത്വങ്ങൾ വീണ്ടും തെളിയിക്കാം അതിനാൽ ഇടത് വശത്ത് ഉള്ളത് വലതുഭാഗത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് തെളിയിക്കാൻ നമുക്ക് ഫൈ ഇൻവേർസ് J പ്രൈമിന്റെ ഫൈ യിലെ a എടുക്കാം അതായത് a Φ യ്ക്ക് തുല്യമാണ് ചില b ഫൈ ഇൻവെർസ് J പ്രൈമിലാണ് ഇതിന്റെ ഇമേജിൽ ആയിരിക്കുന്നതിന്റെ നിർവചനം അതാണ് a Φ യ്ക്ക് തുല്യമാണ് ഇതിനർത്ഥം ഫൈ ഇൻവെർസ് J പ്രൈമിനുള്ളിൽ എന്തെങ്കിലുമുണ്ടെന്നാണ് അതുപോലെ a Φ യ്ക്ക് തുല്യമാണ് എന്നാൽ b എന്നത് ഫൈ ഇൻവെർസ് J പ്രൈമിലാണ് അതായത് a എന്നത് J പ്രൈമിലെ ഫൈ b യ്ക്ക് തുല്യമാണ് കാരണം b ഫൈ ഇൻവെർസ് J പ്രൈമിലാണെങ്കിൽ Φ J പ്രൈമിലാണ് അതായത് a J പ്രൈമിലാണ് അതിനാൽ J പ്രൈമിൽ ഇത് കൃത്യമായി ഉൾപ്പെടുത്തുന്നു ഇപ്പോൾ വിപരീത ഉൾപ്പെടുത്തലും എളുപ്പമാണ് നമുക്ക് J പ്രൈമിൽ എന്തെങ്കിലും തിരഞ്ഞെടുക്കാം അതിനാൽ ഇത് യഥാർത്ഥത്തിൽ പൂർണ്ണമായും സെറ്റ് സൈദ്ധാന്തികമാണ് ഈ സമത്വം എല്ലായ്പ്പോഴും ഇവിടെ ഇടത് വശത്ത് നിലനിർത്തുന്നു അതിനാൽ a J പ്രൈമിലാണ് അതിന്റെ അർത്ഥം ഓർക്കുക J പ്രൈം S ൽ ആണ് S R ൻറെ ഇമേജ് ആണ് b R ലാണെങ്കിൽ a b യുടെ ഫൈയ്ക് തുല്യമാണ് നിർവചനം അനുസരിച്ച് a ഇമേജിൽ ആണെന്ന് അർത്ഥമാക്കുന്നത് a എന്നത് ചില ഘടകത്തിൻറെ Φ ന് തുല്യമാണ് എന്നാൽ അതിനർത്ഥം a എന്നത് J പ്രൈമിലാണ് എന്നാണ് b എന്നത് ഫൈ ഇൻവെർസ് J പ്രൈമിലാണ് കാരണം Φ എന്നത് J പ്രൈം b ആണ് അത് ഫൈ ഇൻവെർസ് J പ്രൈമിലാണ് പക്ഷേ അതിനർത്ഥം b എന്നത് ഫൈ ഇൻവെർസ് J പ്രൈമിലാണ് അതായത് അതിന്റെ ഇമേജ് ഫൈ ഇൻവെർസ് J പ്രൈമിൻറെ ഫൈ ആണ് അതിനാൽ B ഇതിലുണ്ട് അതിനാൽ Φ എന്നത് ഇതിൻറെ Φ ൽ ആണ് ഇത് ഇതിന്റെ ഫൈ ഇൻവെർസ് J പ്രൈമിൻറെ Φ യിലാണ് അതിനാൽ ഇത് ഇവിടെ കൃത്യമായി ഐഡിയലാണ് അതിനാൽ a ഇതിനുള്ളിലാണ് അങ്ങനെ നമ്മൾ ഇത് തെളിയിച്ചു അതിനാൽ നമ്മൾ J പ്രൈമിൽ എന്തെങ്കിലും ആരംഭിച്ച് ഇത് ഇവിടെ നമ്മൾ കാണിച്ചു ഇവ രണ്ടും കാണിച്ചു അതായത് ഞാൻ ഇവിടെ നിർവചിച്ച f g ഫംഗ്ഷനുകൾ പരസ്പരം വിപരീതമാണ് അതിനാൽ അവസാന ഭാഗത്ത് ഞാൻ കുറച്ച് വേഗത്തിൽ പോയിരിക്കാം പക്ഷേ അത്തരം സന്ദർഭത്തിൽ ദയവായി വീഡിയോ താൽക്കാലികമായി നിർത്തുക ഇതിനെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വീഡിയോ വീണ്ടും കേൾക്കുക ഇത് നിങ്ങൾക്ക് വ്യക്തമാകും അതിനാൽ ഇതാണ് ഞാൻ ചെയ്തത് ഇത് തെളിവ് പൂർത്തിയാക്കുന്നു കേർണൽ ഫൈ അടങ്ങിയിട്ടുള്ള R ന്റെ ഐഡിയലുകളും S ന്റെ ഐഡിയലുകളും തമ്മിലുള്ള കറസ്പോണ്ടൻസ് സിദ്ധാന്തം ഞാൻ തെളിയിച്ചു കൂടാതെ R മോഡ് കേർണൽ ഫൈ S യുമായി ഐസോമോർഫിക്ക് ആണെന്നും ഈ സിദ്ധാന്തത്തിൽ ഞാൻ തെളിയിച്ചിട്ടുണ്ട് ഇതിനെ ആദ്യത്തെ ഐസോമോർഫിസം സിദ്ധാന്തം എന്ന് വിളിക്കുന്നു ഇതൊരു പ്രധാന സിദ്ധാന്തമാണ് ഞാൻ ഇവിടെ വീഡിയോ നിർത്താൻ പോകുന്നു അടുത്ത വീഡിയോയിൽ ഈ സിദ്ധാന്തത്തിൽ നമ്മൾ ചെയ്ത എല്ലാ ഫലങ്ങളും മനസിലാക്കാൻ നമ്മൾ ചില ഉദാഹരണങ്ങൾ ചെയ്യും